ആശംസകൾഇൻസ്ട്രക്ഷണൽ സിറ്റുവേഷൻസിനെ സംബന്ധിച്ച മൊഡ്യൂൾ 3 യൂണിറ്റ് രണ്ടിലേക്ക് സ്വാഗതം മുമ്പത്തെ യൂണിറ്റിൽ നമ്മൾ ഇൻസ്ട്രക്ഷന്റെ ചില സ്വഭാവവും സവിശേഷതകളും മനസ്സിലാക്കി എന്താണ് ഇൻസ്ട്രക്ഷൻ അതുമായിബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം ഒന്ന് ഓടിച്ചു നോക്കിഅല്ലെങ്കിൽ ഒരു അവലോകനം നടത്തി ഇൻസ്ട്രക്ഷനെ എങ്ങനെ തരംതിരിക്കാമെന്ന് മനസിലാക്കുക എന്നതാണ് ഇൻസ്ട്രക്ഷന്റെ ആദ്യ ഘടകങ്ങളിലൊന്ന് നിരവധി മാർഗങ്ങളുണ്ട് ഇൻസ്ട്രക്ഷൻ സാഹചര്യങ്ങൾ നമുക്ക് നോക്കാം ഇൻസ്ട്രക്ഷൻ സാഹചര്യങ്ങളുടെ ഘടകങ്ങൾ മനസിലാക്കുക എന്നതാണ് ഈ യൂണിറ്റിന്റെ പ്രധാന ലക്ഷ്യം ഇൻസ്ട്രക്ഷൻ സാഹചര്യങ്ങൾ എന്നാൽ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് ഇതിനെ സന്ദർഭം എന്നും വിളിക്കാം കാരണം നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏത് കോഴ്സും ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് വാഗ്ദാനം ചെയ്യുന്നത് ഉദാഹരണത്തിന് എല്ലാ സ്ഥാപനങ്ങളും ഒരുപോലെയല്ല എല്ലാറ്റിനുമുപരിയായി അവ വ്യത്യസ്ത സ്ഥലങ്ങളിൽ സ്ഥിതിചെയ്യുന്നു കൂടാതെ ക്ലാസ് മുറികൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും വ്യത്യസ്തമായിരിക്കും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഉണ്ടാകുന്ന വിദ്യാർത്ഥികളും വ്യത്യസ്തമായിരിക്കും ലഭ്യമായ ഫാക്കൽറ്റിയും വ്യത്യസ്തമാകുംഅങ്ങിനെ പലതും അതിനാൽ നിങ്ങൾ ഒരു കോഴ്സ് നടത്തുന്ന സന്ദർഭം ഒരോയിടത്തും വ്യത്യസ്തമായിരിക്കും ഒരു ഇൻസ്ട്രക്ഷൻ സന്ദർഭം ഇൻസ്ട്രക്ഷൻ ക്രമീകരണത്തെയും സഹചര്യത്തെയും സൂചിപ്പിക്കുന്നു ഇത് ഇൻസ്ട്രക്ഷൻ യഥാർത്ഥത്തിൽ നടക്കുന്ന സ്ഥലത്തെ വിദ്യാർത്ഥികളുടെ നിലവാരം സാമൂഹിക ചുറ്റുപാടുകൾ ധനപരമായ അവസ്ഥകൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിലെ ഓർഗനൈസേഷൻ ബന്ധങ്ങൾ എന്നിവ ആകാം വ്യക്തിഗത പഠിതാക്കൾ ഇൻസ്ട്രക്ഷനിൽ നിന്ന് എന്ത് എപ്പോൾ എവിടെ എങ്ങനെ എന്തുകൊണ്ട് ആരുമായി പഠിക്കുന്നു എന്നത് പഠിതാവിന് പുറത്തുള്ള എല്ലാ ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ ഒരു ഐഐടിയും പുതുതായി ആരംഭിച്ച റൂറൽ എഞ്ചിനീയറിംഗ് കോളേജും എടുക്കുകയാണെങ്കിൽ സന്ദർഭങ്ങൾ ഒന്നുതന്നെയല്ല കോഴ്സുകൾ എടുക്കുന്ന അധ്യാപകർക്ക് സാഹചര്യത്തിന്റെ സ്വാധീനത്തെയോ കോഴ്സ് നടത്താനുള്ള സന്ദർഭത്തെയോ പൂർണ്ണമായും മറികടക്കാൻ കഴിയില്ല വിഷയം ഏകദേശം അതേപടി നിലനിൽക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു സ്ഥാപനത്തിന് എന്തുചെയ്യാൻ കഴിയുമെന്നത് നിങ്ങൾക്ക് ലക്ഷ്യം വയ്ക്കാനാവില്ല ഈ എല്ലാ ഘടകങ്ങളെയും ഒന്നിച്ച് ഇൻസ്ട്രക്ഷൻ സാഹചര്യം എന്ന് വിളിക്കുന്നു ഞാൻ എങ്ങനെ തരം തിരിക്കും ക്ലാസ്സിഫിക്കേഷൻ തനതായ ഒന്നല്ല ലിറ്ററേച്ചർ ഈ ഇൻസ്ട്രക്ഷൻ സാഹചര്യങ്ങളെ പല തരത്തിൽ തരംതിരിക്കുന്നു ഇൻസ്ട്രക്ഷൻ സാഹചര്യങ്ങളുടെ വിശാലമായ തരാം തിരിക്കൽ മൂല്യവും വ്യവസ്ഥകളുമാണ് മൂല്യങ്ങൾ എന്നത് ഉപഭോക്താക്കൾ പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്ന ഇൻസ്ട്രക്ഷൻ ഘടകങ്ങളെ പരാമർശിക്കുന്നു കാരണം വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ ഉപഭോക്താക്കൾ വ്യത്യസ്തരാണ് ഉദാഹരണത്തിന് എൻഐടി പരിഗണിക്കുക എൻഐടിയെ നിയന്ത്രിക്കുന്നത് ചില ബോർഡ് ഓഫ് ഗവർണർമാർ അല്ലെങ്കിൽ ഒരു ഗവേണിംഗ് കൌൺസിൽ വിവിധ അക്കാദമിക് ബോഡികൾ എന്നിവയാണ് അവിടെ ഘടന അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പങ്ക് സ്വകാര്യ സ്വാശ്രയ കോളേജിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇവിടെയാണ് പ്രശ്നം വരുന്നത് ഏത് സ്ഥാപനത്തിലും നിങ്ങൾക്ക് നിരവധി ഉപഭോക്താക്കളുണ്ട് മാനേജ്മെന്റ് അക്കാദമിക് കൌൺസിൽ പഠന ബോർഡുകൾ അധ്യാപകർ തന്നെ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ ഇൻസ്ട്രക്ഷൻ എങ്ങനെ നടത്തണമെന്നതിൽ ഈ പങ്കാളികളിൽ ഓരോരുത്തർക്കും വ്യത്യസ്ത തലത്തിലുള്ള സ്വാധീനമുണ്ട് എന്നാൽ എല്ലാ പങ്കാളികളിലുമുള്ള ഇൻസ്ട്രക്ഷൻ മൂല്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഏകീകരണം നമുക്ക് സഹായകരമാണ് അവ ഒരുപോലെ അല്ലെങ്കിൽ അതായത് മാനേജുമെന്റ് എന്താണ് പ്രതീക്ഷിക്കുന്നത് ടീച്ചർ എന്തുചെയ്യാൻ ആഗ്രഹിക്കുന്നു അവ തമ്മിൽ വൈരുധ്യങ്ങൾ ഉണ്ടെങ്കിൽ വ്യക്തമായും ഒരു നല്ല ഇൻസ്ട്രക്ഷൻ നടന്നേക്കില്ല മാനേജുമെന്റ് പറയുന്ന ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ അധ്യാപകന് ഇപ്പോഴും പിന്തുടരാം പക്ഷേ മറ്റ് പങ്കാളികളുടെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ഒരു കോഴ്സ് ചെയ്യുന്നതിൽ അദ്ദേഹം സന്തുഷ്ടനാകില്ല നിബന്ധനകൾ എന്നാൽ ഇൻസ്ട്രക്ഷൻ രീതികളുടെ തിരഞ്ഞെടുപ്പിലും ഉപയോഗത്തിലും സ്വാധീനം ചെലുത്തുന്ന മൂല്യങ്ങൾ ഒഴികെയുള്ള സന്ദർഭവുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും മൂല്യങ്ങൾ ഒഴികെയുള്ള നിരവധി നിബന്ധനകൾ ഇതാണ് ചിലത് ഇവിടെ പട്ടികയിൽ കാണിച്ചിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ നടത്തുന്നതിന് പ്രധാനമായ എല്ലാ വ്യവസ്ഥകളുടെയും എല്ലാ വശങ്ങളും അവ ഉൾക്കൊള്ളുന്നു മൂല്യങ്ങൾ എന്നാൽ പഠന ലക്ഷ്യങ്ങൾ മുൻഗണനകൾ രീതികൾ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ളവർ എന്നിവയെ സൂചിപ്പിക്കുന്നു പഠന ലക്ഷ്യങ്ങൾ പാഠ്യപദ്ധതി ഒരു പഠന ലക്ഷ്യമാണ് പാഠ്യപദ്ധതിയിൽ നിരവധി കോഴ്സുകൾ പ്രോജക്റ്റുകൾ മുതലായവ അടങ്ങിയിരിക്കുന്നു പക്ഷേ ഒരു വ്യക്തിഗത അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഔട്ട്കം ബേസ്ഡ് വിദ്യാഭ്യാസത്തിൻറെ പശ്ചാത്തലത്തിൽ പഠന ലക്ഷ്യങ്ങൾ ഔട്ട്കംസായി കാണിച്ചിരിക്കുന്നു പ്രോഗ്രാം ഔട്ട്കംസ് പ്രോഗ്രാം നിർദ്ദിഷ്ട ഔട്ട്കംസ് കോഴ്സ് ഔട്ട്കംസ് പിഒകൾ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ ഇതിനകം നൽകിയിട്ടുണ്ട് പിഎസ്ഒകൾ വ്യക്തിഗത അധ്യാപകർ തിരഞ്ഞെടുക്കുന്നില്ല അത് തിരഞ്ഞെടുക്കുന്നത് അതാതു വകുപ്പാണ് അധ്യാപകനുള്ള സ്വാതന്ത്ര്യം സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സിഒ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണ് ഒരു അഫിലിയേറ്റഡ് കോളേജാണെങ്കിൽ സിഒകൾ പോലും ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ് നൽകുന്നത് CO കൾ എഴുതുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ പഠന ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പുനൽകാനാകില്ല നന്നായി നിർവചിക്കപ്പെട്ട ഒരു പ്രക്രിയയെ തുടർന്നാണ് ഈ ഔട്ട് കം സ്റ്റേറ്റ്മെന്റ് പ്രസ്താവനകൾ എഴുതേണ്ടത് CO യുടെ പ്രസ്താവന ചെയ്യേണ്ട കാര്യങ്ങളെ അവ്യക്തമായി പ്രതിനിധീകരിക്കരുത് എന്താണ് ലക്ഷ്യം അത് വളരെ വ്യക്തമായി വിശദീകരിക്കണം ദയവായി TALE മൊഡ്യൂൾ 1 കാണുക ഏത് സമയത്തും അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് മുറിയിൽ ഒരു കോഴ്സ് ഔട്ട്കം ഇൻസ്ട്രക്ഷന്റെ കേന്ദ്രമായി മാറുന്നു കാരണം ഞാൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരു കോഴ്സ് ഔട്ട്കം ഞാൻ അഭിസംബോധന ചെയ്യുന്നു വ്യക്തമായും ആ സിഒ അഭിസംബോധന ചെയ്യുന്ന പിഒകളും പിഎസ്ഒകളും കണക്കിലെടുത്ത് ആ സിഒയ്ക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് ഏത് പിഒ എടുക്കണം ഏത് പിഎസ്ഒ എടുക്കണം എന്നത് മൊഡ്യൂൾ 1 ൽ വിശദമായി പരിശോധിച്ചു മുൻഗണനകൾ മുൻഗണനകൾ ഓരോ കോഴ്സിനും വ്യത്യസ്തമാണ് പല യൂണിവേഴ്സിറ്റികളും ബോർഡ് ഓഫ് സ്റ്റഡീസും ഈ പിശക് വരുത്തുന്നു ഒരു നിശ്ചിത കോഴ്സിന്റെ ഉള്ളടക്കം ഓവർലോഡ് ചെയ്യുക അധ്യാപകന് ലഭ്യമായ സെഷനുകളുടെ എണ്ണത്തിന് ആനുപാതികമല്ലാത്തതാണ് ഉള്ളടക്കം ഉള്ളടക്കം വളരെ വലുതാകുമ്പോൾ മുൻഗണന സിലബസിനെ പൂർത്തിയാക്കുക എന്നതാകുന്നു ഉള്ളടക്കം നോക്കാതെ എങ്ങിനെ ക്ലാസ് വേഗത്തിലാക്കാം എന്നത് മാത്രമാകും നമ്മുടെ ചിന്ത "ഈ പ്രത്യേക അധ്യായമോ ഭാഗമോ പഠിപ്പിക്കാത്തതിന്" അധ്യാപകനെ തെറ്റിദ്ധരിക്കരുത് എന്നതിനാലാണിത് അതിനാൽ സിലബസ് കവർ ചെയ്യുന്നത് മുൻഗണനയായി മാറുന്നു ചിലപ്പോൾ ലഭ്യമായ സെഷനുകൾ പര്യാപ്തമല്ലെങ്കിലും അധിക സെഷനുകൾ എടുക്കാൻ ആളുകൾ നിർബന്ധിതരാകുന്നു മറ്റൊരു കോഴ്സിൽ വിജയശതമാനം ഉയർന്നതായിരിക്കണം അത് മാനേജുമെന്റോ വകുപ്പ് മേധാവിയോ നിഷ്കർഷിക്കുന്നു വിജയശതമാനം കുറയാൻ കഴിയില്ല കാരണം കോളേജിന് അതുകൊണ്ട് മറ്റ് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരും ചില സാഹചര്യങ്ങളിൽ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു അദ്ധ്യാപകന് കുറച്ചുകൂടി നിയന്ത്രണമുണ്ട് എന്നാൽ അധ്യാപകന് ചില വിഷയങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കാമെന്നതിനാൽ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പിശക് സംഭവിക്കാം കോഴ്സിന്റെ തിരഞ്ഞെടുത്ത ചില ഭാഗങ്ങൾ നന്നായി പഠിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് മറ്റൊരു മുൻഗണന ചില വിഷയങ്ങൾ മറ്റുള്ളവയേക്കാൾ പ്രധാനമാണെന്ന് ടീച്ചർ കരുതുന്നു അല്ലെങ്കിൽ അയാൾക്ക് ആ വിഷയങ്ങൾ ഇഷ്ടമാണ് എങ്ങിനെ ആണെങ്കിലും അധ്യാപകർ ചില വിഷയങ്ങളിൽ മറ്റുള്ളവയേക്കാൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കാം അത് അധ്യാപകന്റെ മുൻഗണനയായി മാറുന്നു ദുർബലരായ വിദ്യാർത്ഥികളുടെയോ ചിലപ്പോൾ മികച്ച വിദ്യാർത്ഥികളുടെയോ ആവശ്യങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നതിനാണ് ചിലപ്പോൾ മുൻഗണന ബോറടിച്ചേക്കാവുന്ന മികച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷൻ മാർഗം സ്വീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ദുർബലരായ വിദ്യാർത്ഥികൾക്ക് അത് മനസിലാക്കാൻ കഴിഞ്ഞേക്കില്ല അപ്പോൾ ഇവരിൽ ഒരാളുടെ ആവശ്യകതകൾ അധ്യാപകൻ പരിഹരിക്കേണ്ടതുണ്ട് മുൻഗണനകൾ ഒരോ കോഴ്സിലും വ്യത്യസ്തമാണ് ഉള്ളടക്കം മാത്രമല്ല കാരണം ടീച്ചറുടെ മുൻഗണന അല്ലെങ്കിൽ മറ്റ് പങ്കാളികളുടെ മുൻഗണനകളും അതിനു കാരണമാകും ഇൻസ്ട്രക്ഷൻ രീതി ഞാൻ എന്റെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സഹായിക്കുന്ന രീതി എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ്ട് 99 ശതമാനം പേരും ഇഷ്ടപ്പെടുന്ന ഇൻസ്ട്രക്ഷൻ രീതി ലെക്ച്ചറിങ് ആണ് അതിനെ നിങ്ങൾക്ക് വിവരങ്ങളുടെ കൈമാറ്റം എന്ന് വിളിക്കാം നിങ്ങൾ ലെക്ച്ചറിങ് നടത്തുമ്പോൾ അധ്യാപകൻ എത്ര അറിവുള്ളവനായാലും അവതരണങ്ങൾ ക്ലാസ് റൂമിൽ എത്രത്തോളം ഉപയോഗപ്രദമാണെങ്കിലും ക്ലാസ് റൂമിലെ മിക്ക സമയവും വിവരങ്ങൾ കൈമാറുന്നതിനായി ചെലവഴിക്കുന്നു എന്നിരുന്നാലും അധ്യാപകന് ധാരാളം ഇൻസ്ട്രക്ഷൻ രീതികൾ ലഭ്യമാണ് എന്നാൽ അവ ലഭ്യമായതുകൊണ്ട് അവ ഉപയോഗിച്ചുവെന്ന് അർത്ഥമാക്കുന്നില്ല മാത്രമല്ല എല്ലാ രീതികളും എല്ലാ അധ്യാപകരും ഇഷ്ടപ്പെടുന്നുവെന്ന് ഇതിനർത്ഥമില്ല ഓരോ അദ്ധ്യാപകനും യഥാർത്ഥത്തിൽ ഈ ഇൻസ്ട്രക്ഷൻ രീതികളിൽ ചിലതെങ്കിലും പരീക്ഷിക്കണം കൂടാതെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളോടുള്ള മുൻഗണനയെ അടിസ്ഥാനമാക്കി ആ രീതികൾ തന്റേതാക്കി മാറ്റണം അയാൾക്ക് വിശദാംശങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും പക്ഷേ അയാൾ സ്വന്തമായ രീതികൾ ഉണ്ടാക്കണം അങ്ങിനെ അത് അവന്റെ ഇഷ്ടപ്പെട്ട രീതികളായിത്തീരുകയും ചെയ്യണം തീർച്ചയായും രീതികളുടെ തിരഞ്ഞെടുപ്പ് ഭൌതിക സഹചര്യങ്ങൾ അനുസരിച്ചാകണം പക്ഷേ അത് എന്താണെന്ന് നമ്മൾ ഇപ്പോൾ കാണും അവ എത്രത്തോളം ഫലപ്രദമായിരിക്കും ചില രീതികളിൽ ലെക്ച്ചറിങ് രസകരവും പ്രചോദനകരവുമാണെങ്കിലും ഫലപ്രദമല്ലെന്ന് പറയുന്നു ഫലപ്രദമാണ് എന്നാൽ ഉദ്ദേശിച്ച പഠന ലക്ഷ്യം കൈവരിക്കേണ്ടതുണ്ട് അത് നേടാനായില്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ആ ദിശ അത് പര്യാപ്തമല്ല ഇത് യുക്തിസഹമായി കാര്യക്ഷമമായിരിക്കണം കാരണം ഒരു ആശയം ആശയവിനിമയം നടത്താൻ കൂടുതൽ സമയം എടുക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥികൾ പഠിക്കുക എന്നതാണ് അവതരിപ്പിക്കുന്ന അറിവുകളുമായി അവർ ഇടപഴകണം ഇടപഴകൽ എന്നാൽ നിഷ്ക്രിയമായ ശ്രവണം മാത്രമായി പരിമിതപ്പെടുത്തരുത് നിർഭാഗ്യവശാൽ മിക്കപ്പോഴും ഇത് സംഭവിക്കുന്നു ആർക്കാണ് അധികാരമുള്ളത് സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉള്ളടക്കം തീരുമാനിക്കാൻ അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു പരിധിവരെ ഇൻസ്ട്രക്ഷൻഅസസ്സ്മെന്റ് ഇവാല്യൂവേഷൻ എന്നിവയിൽ ഇൻസ്ട്രക്ടർക്ക് അധികാരമുണ്ട് നാല് ഭാഗങ്ങളിലും അദ്ദേഹത്തിന് ഒരുതരം നിയന്ത്രണമുണ്ട് ഉദാഹരണത്തിന് ഉള്ളടക്കത്തിൽ അവന് പരിധിയില്ലാത്ത സ്വാതന്ത്ര്യമില്ല അദ്ദേഹത്തിന് കോഴ്സ് രൂപകൽപ്പന ചെയ്ത് വകുപ്പ് അക്കാദമിക് കമ്മിറ്റി തുടർന്ന് ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്നിവക്കു മുൻപാകെ വച്ച് അംഗീകാരം നേടാം സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മിക്ക കേസുകളിലും ഇത് സാധ്യമാണ് ഉള്ളടക്കത്തിന്റെ ആദ്യ തലത്തിലുള്ള രൂപകൽപ്പന അല്ലെങ്കിൽ ഉള്ളടക്കങ്ങളുടെ തിരഞ്ഞെടുപ്പ് അധ്യാപകന്റെ കയ്യിലാണ് തുടർന്ന് ഇൻസ്ട്രക്ഷൻഅസസ്സ്മെന്റ് ഇവാല്യൂവേഷൻ എന്നിവ അധ്യാപകന്റെ കൈകളിലാണ് യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ ആണെങ്കിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് അക്കാദമിക് കൌൺസിലുകൾ അല്ലെങ്കിൽ വിദൂരസ്ഥലത്തുള്ള പരീക്ഷകളുടെ കൺട്രോളർ പോലുള്ള ചില കേന്ദ്രീകൃത സ്ഥാപനങ്ങൾക്കാണ് ഉള്ളടക്കംഅസസ്സ്മെന്റ് ഇവാല്യൂവേഷൻ എന്നിവ തീരുമാനിക്കാനുള്ള അധികാരം അധ്യാപകന് ഇൻസ്ട്രക്ഷനിൽ അധികാരമുണ്ട് ചിലപ്പോൾ അയാൾക്ക് അത് പോലും ഇല്ലായിരിക്കാം ചില സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഇൻസ്ട്രക്ഷന്റെ പല വശങ്ങളിലും എച്ച്ഒഡി മുഖേന മാനേജ്മെന്റിന് ആണ് അധികാരം ഇത് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ടെകിലും അല്ലെങ്കിൽ വാക്കുകളിൽ മാത്രമേ ഉള്ളുവെങ്കിലും നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ എങ്ങനെ നടത്തുന്നു എന്നതിനെ സാരമായി ബാധിക്കും നിബന്ധനകൾ ഞാൻ ഇവിടെ 5 കാര്യങ്ങൾ പറയാം പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാൻ കഴിയും അല്ലെങ്കിൽ ഇവിടെ പറയാത്ത മറ്റ് നിബന്ധനകൾ കൊണ്ടുവരാൻ കഴിയും ഉള്ളടക്കം ആശയവിനിമയം പഠിതാക്കൾ പഠന സാഹചര്യം വികസന പരിമിതികൾ എന്നിവയാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന അഞ്ച് വ്യവസ്ഥകൾ Content All courses are not similar in nature so an instruction method that is applicable to ഉള്ളടക്കം എല്ലാ കോഴ്സുകളും സമാനമല്ല അതിനാൽ ഒരു തരത്തിന് ബാധകമായ ഇൻസ്ട്രക്ഷൻ രീതി തീർച്ചയായും മറ്റ് ചില കോഴ്സുകൾക്ക് ഏറ്റവും മികച്ചതായിരിക്കണമെന്നില്ല കോഴ്സുകൾ വിവരണാത്മക ഗണിതശാസ്ത്ര ആശയപരമായ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ അടിസ്ഥാനമാക്കിയുള്ളവ ആകാം ഉദാഹരണത്തിന് ഡിസൈൻ അടിസ്ഥാനമാക്കിയുള്ള കോഴ്സും ഗണിതശാസ്ത്ര കോഴ്സും സമാന ശൈലിയിൽ പഠിപ്പിക്കാൻ കഴിയില്ല ഉള്ളടക്കം തന്നെ ഇൻസ്ട്രക്ഷനുള്ള ഒരു പ്രധാന വ്യവസ്ഥയാണ് എനിക്ക് കുറച്ച് അനുഭവം ലഭിച്ച മെറ്റീരിയൽ സയൻസ് പോലുള്ള ഒരു കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് പല ശാഖകൾക്കും വളരെ പ്രധാനമാണ് നിങ്ങൾ ഏതുവിധത്തിൽ നോക്കിയാലും ഒന്നുകിൽ അത് വളരെ ശാസ്ത്രീയമായി മാറും അല്ലെങ്കിൽ അത് വളരെ വിവരണാത്മകമാകും ഏതു രീതിയിൽ നോക്കിയാലും ഒരു തരത്തിലും ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് അതിൽ ഒരു മൂല്യവും ഉടനടി കാണാൻ കഴിയില്ല നിങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് പാഠ്യപദ്ധതി പറയുന്നുവെന്ന് മാത്രമേ നമ്മൾക്ക് പറയാൻ കഴിയൂ എന്നാൽ വിദ്യാർത്ഥിക്ക് തന്റെ ബ്രാഞ്ചിൽ മെറ്റീരിയൽ സയൻസിന്റെ പ്രാധാന്യം മനസിലാകില്ല പ്രത്യേകിച്ചും രണ്ടാം അല്ലെങ്കിൽ മൂന്നാം സെമസ്റ്റർ തലത്തിൽ ഇത് വാഗ്ദാനം ചെയ്യുമ്പോൾ ഈ വിവരണാത്മക കോഴ്സുകളിലെ ഇൻസ്ട്രക്ഷൻ തികച്ചും വെല്ലുവിളി നിറഞ്ഞതാണ് കാരണം പ്രോബ്ലം സോൾവിങ് ഒന്നും ഇല്ലാത്ത കേട്ടിരിക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒരു വിദ്യാർത്ഥിയും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അതിന്റെ മൂല്യം എന്താണെന്ന് അദ്ദേഹം കാണുന്നില്ല അതിലൂടെ കടന്നുപോകേണ്ടത് അത്യാവശ്യമായ ഒരു ബാധ്യത പോലെയാണ് അത് ആസ്വാദ്യകരമാക്കുന്നത് അധ്യാപകന് ഒരു പ്രധാന വെല്ലുവിളിയാണ് വളരെയധികം ഗണിതശാസ്ത്ര സ്വഭാവമുള്ള കൂടാതെ അല്ലെങ്കിൽ മനസിലാക്കാൻ പ്രയാസമുള്ള നിരവധി ആശയങ്ങളുള്ള കോഴ്സുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അത്തരമൊരു കോഴ്സ് ഇൻസ്ട്രക്ഷൻ മറ്റൊരു വിധത്തിൽ വെല്ലുവിളിയാണ് നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ നിലവാരത്തിലേക്ക് അവർക്കു പഠനത്തിൽ താല്പര്യം തോന്നുന്ന തലത്തിലേക്ക് അത് എങ്ങിനെ എത്തിക്കും ചില കോഴ്സുകൾ വ്യത്യസ്ത കാരണങ്ങളാൽ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഉദാഹരണത്തിന് സർക്യൂട്ട് തിയറി ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്നീ കോഴ്സുകൾ പരിഗണിക്കുക എല്ലാവരും അവ അനിവാര്യമാണെന്ന് കരുതുന്നു പക്ഷേ മിക്ക വിദ്യാർത്ഥികളും പൊതുവെ അവ അവതരിപ്പിക്കുന്ന രീതി കൊണ്ട് അതിൽ താൽപ്പര്യമില്ലാത്തവർ ആകുന്നു അങ്ങിനെ എല്ലാ ആശയങ്ങളും അനുബന്ധ ഗണിതശാസ്ത്രവും ഉൾക്കൊള്ളാത്തപ്പോൾ അവർ ആ കോഴ്സുകളിൽ മികച്ച പ്രകടനം നടത്തുന്നില്ല എല്ലാ കോഴ്സുകളും കോഴ്സ് ഔട്ട്കംസിന്റെ അടിസ്ഥാനത്തിൽ വിവരിക്കേണ്ടതുണ്ടെന്ന് വ്യക്തമാണ് നിങ്ങൾക്ക് വിഷയങ്ങളുടെ ഒരു പട്ടികയും നൽകാം പക്ഷേ ഇന്നത്തെ ഔട്ട്കം ബേസ്ഡ് വിദ്യാഭ്യാസത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ കോഴ്സുകളും കോഴ്സ് ഔട്ട്കംസിന്റെ അടിസ്ഥാനത്തിൽ വിവരിക്കേണ്ടതുണ്ട് ആശയവിനിമയം അദ്ധ്യാപനം പ്രാഥമികമായി ഒരു ആശയവിനിമയ പ്രക്രിയയാണ് നിങ്ങൾ വിദ്യാർത്ഥിയുമായി എന്തെങ്കിലും ആശയവിനിമയം നടത്തുന്നു അതിനർത്ഥം നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒരു സന്ദേശം നൽകുന്നുവെന്നും വിദ്യാർത്ഥികൾ ആ സന്ദേശം സ്വായത്തമാക്കി അല്ലെങ്കിൽ അവർ സന്ദേശം മനസ്സിലാക്കുന്നു എന്നാണ് അതിനാൽ ആശയവിനിമയത്തിനുള്ള നിയമങ്ങളും ക്ലാസ് മുറിയിലെ അധ്യാപകന്റെയും വിദ്യാർത്ഥിയുടെയും ആശയവിനിമയ ശേഷിയും ഔട്ട്കംസിന്റെ നേട്ടത്തെ സ്വാധീനിക്കും ഒരു അധ്യാപകനെന്ന നിലയിൽനമുക്ക് ആശയവിനിമയ ശേഷി ഉണ്ട് അധ്യാപകസമൂഹം ഈ മുഴുവൻ സ്പെക്ട്രവും വളരെ മോശം മുതൽ വളരെ നല്ലത് വരെയുള്ളകൈകാര്യം ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും നിർഭാഗ്യവശാൽ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ആരെങ്കിലും മോശമാണെങ്കിലും വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവരുടെ ആശയവിനിമയ ശേഷി മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുള്ളൂ അവർ ആരംഭിക്കുകയും ഒരുപക്ഷേ അവരുടെ കരിയറിൽ ഉടനീളം ഒരേ സ്ഥലത്ത് തന്നെ തുടരുകയും ചെയ്യും വിദ്യാർത്ഥികൾക്കും മതിയായ ആശയവിനിമയ ശേഷി ഉണ്ടായിരിക്കില്ല കാരണം ഇംഗ്ലീഷുമായോ അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്ന ഭാഷയിലോ ഉള്ള അദ്ദേഹത്തിന്റെ കഴിവ് പര്യാപ്തമല്ലായിരിക്കാം അതിനാൽ തന്നെ ക്ലാസ് മുറിയിൽ സംസാരിക്കുന്ന ഓരോ വാക്യത്തിൻറെയും ഓരോ വാക്കും അയാൾ അവൾക്ക് മനസ്സിലാകണമെന്നില്ല വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഈ ആശയവിനിമയ ശേഷി ഔട്ട്കംസിന്റെ നേട്ടത്തിൽ നിർണായക സ്വാധീനം ചെലുത്തും ഇൻസ്ട്രക്ഷന്റെ ഘടനയും ദിശയും അധ്യാപകൻ നിർണ്ണയിക്കുന്നു നിങ്ങൾക്ക് നിരവധി ഇൻസ്ട്രക്ഷൻ രീതികൾ ലഭ്യമാണ് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥി ഒരു ചോദ്യം ചോദിക്കും അതിനുശേഷം നിങ്ങൾ ഉത്തരം നൽകുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നത് വിദ്യാർത്ഥി ശ്രദ്ധിച്ച് പിന്നീട് വ്യക്തത തേടുകയോ ചെയ്യുന്നു എന്നാൽ ഈ ഇൻസ്ട്രക്ഷന്റെ ഘടനയോ നിയമങ്ങളോ പൊതുവായി നിർണ്ണയിക്കുന്നത് അധ്യാപകനാണ് ഓരോ അദ്ധ്യാപകനും തുടക്കത്തിൽ തന്നെ ഈ നിയമങ്ങൾ വ്യക്തമായി പ്രസ്താവിക്കുന്നു ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിക്ക് ഏത് ക്ലാസിലാണ് യഥാർത്ഥത്തിൽ ഒരു ചോദ്യം ചോദിക്കാൻ കഴിയുകയെന്നും ഏത് ക്ലാസിലാണ് തനിക്ക് കഴിയില്ലെന്നും അറിയമായിരിക്കും ഈ ഇൻസ്ട്രക്ഷന്റെ ഘടനയും ദിശയും അധ്യാപകൻ നിർണ്ണയിക്കുന്നു ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ആശയവിനിമയ ഭാഷ പ്രത്യേകിച്ചും നിർണായകമാണ് ഒന്നാമതായി ഇംഗ്ലീഷ് നമ്മുടെ മാതൃഭാഷയല്ല നാമെല്ലാം നമ്മുടെ സ്വന്തം ഭാഷകളിൽ വളർന്നു ചില പ്രത്യേക വിദ്യാർത്ഥികൾ പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഇംഗ്ലീഷിലാണ് ചെയ്യുന്നത് ചിലർ പ്രാദേശിക ഭാഷകളിൽ ഇത് ചെയ്യുന്നു എഞ്ചിനീയറിംഗ് പോലുള്ള പ്രൊഫഷണൽ പ്രോഗ്രാമിലേക്ക് അവർ പ്രവേശിക്കുമ്പോഴേക്കുംഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ആയിരിക്കില്ല ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഇംഗ്ലീഷ് അത്ര സുഖകരമല്ല എന്നാൽ എല്ലാ പഠനകാര്യങ്ങളും ഇംഗ്ലീഷിൽ ആണ് ലഭ്യമാകുക പുസ്തകങ്ങൾ വിലയേറിയതല്ല വിവിധ രൂപങ്ങളിൽ ഇൻറർനെറ്റിൽ ധാരാളം വിവരങ്ങൾ ഉണ്ട് അതിനാൽ പഠന വിഭവങ്ങളുടെ ലഭ്യത ഒരു പ്രശ്നമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാഠപുസ്തകങ്ങളുടെ ലഭ്യത ഒരു പ്രശ്നമായിരുന്നു ലൈബ്രറി ധാരാളം പാഠപുസ്തകങ്ങളുടെ പകർപ്പുകൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ വിലയിരുത്തൽ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ എന്നിവ ഇംഗ്ലീഷിലായിരിക്കണം മിക്ക സ്ഥാപനങ്ങളിലും ഇതല്ലാതെ മറ്റ് മാർഗമില്ല മിക്ക ഇന്ത്യക്കാർക്കും ഇംഗ്ലീഷ് മാതൃഭാഷയല്ല അതുകൊണ്ടു തന്നെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇംഗ്ലീഷിൽ സമർത്ഥമായി ആശയവിനിമയം നടത്താൻ കഴിയാണെമെന്നില്ല ഉദാഹരണത്തിന് ഒരു അധ്യാപകൻ ഇംഗ്ലീഷിൽ നിപുണനല്ലെങ്കിൽ അധ്യാപകനുമായി ആശയവിനിമയം നടത്തുന്നതിൽ പിശകുകൾ ഉണ്ടാകാം ഈ പിശകുകൾ ചിലപ്പോൾ വിദ്യാർത്ഥി തിരിച്ചറിയുന്നു ചിലപ്പോൾ അവർ തിരിച്ചറിയുന്നില്ല ഏതായാലും അത് വിദ്യാർത്ഥിയുടെ പഠനത്തെ സ്വാധീനിക്കും വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷിൽ വേണ്ടത്ര വൈദഗ്ദ്ധ്യം ഇല്ലെങ്കിലും ഇത് സംഭവിക്കാം എല്ലാറ്റിനുമുപരി അധ്യാപകർ ഇംഗ്ലീഷിൽ വേണ്ടത്ര പ്രാവീണ്യമില്ലെങ്കിൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നതിൽ പിശകുകൾ സംഭവിക്കാം ഇംഗ്ലീഷിൽ അത്ര യോഗ്യതയില്ലാത്ത ഒരു വിദ്യാർത്ഥിയുമായി ആശയവിനിമയം നടത്തുന്ന അധ്യാപകനും അങ്ങിനെയാണെങ്കിൽഒരുപാട് തെറ്റിദ്ധാരണകളുടെയും പിശകുകളുടെയും ഉറവിടമാണ് അത് ബോർഡിൽ എഴുതിയതും സ്ലൈഡുകളിൽ അവതരിപ്പിച്ചതുമായ ഭാഷാ പിശകുകൾക്ക് വിപരീത ഫലങ്ങൾ ഉണ്ടാകും അധ്യാപകൻ അവതരിപ്പിക്കുന്നതെന്തും ശരിയാണെന്ന് അംഗീകരിക്കുക എന്നതാണ് ഏതൊരു വിദ്യാർത്ഥിയുടെയും ആദ്യത്തെ പ്രവണത വൈരുദ്ധ്യങ്ങൾ കണ്ടാൽ വിദ്യാർത്ഥി ചിലപ്പോൾ അത് ചൂണ്ടികാണിക്കും അല്ലെങ്കിൽ അത് ചെയ്യില്ല ബോർഡിൽ എഴുതിയതോ സ്ലൈഡുകളിൽ അവതരിപ്പിച്ചതോ ആയ കാര്യങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്നു അവരോടൊപ്പം കൊണ്ടുപോകുന്നു ചിലപ്പോൾ അവരുടെ ജീവിതത്തിലുടനീളം അവർ ഒരു അഭിമുഖത്തെ അഭിമുഖീകരിക്കുമ്പോഴോ മറ്റോ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വരെ അത് അങ്ങിനെ തന്നെ തുടരാം കൂടാതെ ഗ്രാമീണ മേഖലയിൽ നിന്നും വരുന്ന ഇന്ത്യൻ ഭാഷയിൽ 12 ആം ക്ലാസ് പാസായ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഈ സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷിൽ അവരുടെ ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്താൻ നിരവധി പ്രത്യേക ഒദ്യോഗിക അനൌദ്യോഗിക പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രശ്നനങ്ങൾ ഉണ്ടാകുന്നു ഈ വിടവ് നികത്തി എടുക്കാൻ നിരവധി കോളേജുകൾ ഭാഷാ ലാബുകൾ സ്ഥാപിച്ചു പക്ഷേ ആ വിടവ് നികത്തൽ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ശ്രമത്തിനെ ആശ്രയിച്ചിരിക്കുന്നു അതായതു വിദ്യാർത്ഥികൾ വളരെയധികം പരിശ്രമിച്ചില്ലെങ്കിൽ ഭാഷാപ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കപ്പെടില്ല ചില അധ്യാപകർ വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂടെ കൊണ്ടുപോകാൻ പ്രാദേശിക ഭാഷ ഉപയോഗിച്ച് വിവരങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങും നിങ്ങൾ ബോർഡിൽ എന്തെങ്കിലും ഇംഗ്ലീഷിൽ എഴുതുമെങ്കിലും നിങ്ങൾ കൂടുതൽ പ്രാദേശിക ഭാഷകൾ ഉപയോഗിക്കുകയും ഇംഗ്ലീഷിലെ സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു അത് ചില ഉദ്ദേശ്യങ്ങൾ നിറവേറ്റുന്നു പക്ഷേ മൂന്നാം സെമസ്റ്ററിനപ്പുറം ഇത് ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് ദോഷകരമാകും കാരണം വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് അഭിമുഖങ്ങൾ നേരിടേണ്ടിവരും കൂടാതെ അവർ ചെയ്യേണ്ട എല്ലാ പ്രൊഫഷണൽ പ്രവർത്തനങ്ങളും എല്ലാം ഇംഗ്ലീഷിലാണ് നടത്തുന്നത് നിങ്ങൾ പ്ലെയ്സ്മെന്റ് അഭിമുഖങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ നിങ്ങൾ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ എഴുതുന്ന ഘട്ടത്തിലെത്തുകയും ചെയ്യുമ്പോഴേക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് തൃപ്തികരമായ നിലയിലല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് കാര്യമായ പോരായ്മയുണ്ട് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന ഭാഷ നിങ്ങളുടെ മാതൃഭാഷയല്ലാതെ വരുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണിത് ആദ്യ സെമസ്റ്റർ മുതൽ തന്നെ വിദ്യാർത്ഥിക്ക് നിരവധി എഴുതാനുള്ള പരിശീലനങ്ങൾ നൽകുകയും അവയുടെ മൂല്യനിർണയം നടത്തുകയും വേണം അതിൽ വിദ്യാർത്ഥിയുടെ പ്രകടനത്തെക്കുറിച്ച്സംക്ഷിപ്ത വിലയിരുത്തൽ ഉണ്ടായിരിക്കണം വ്യാപകമായി വായിക്കാൻ വിദ്യാർത്ഥിയെ പ്രോത്സാഹിപ്പിക്കണം ഇംഗ്ലീഷിൽ വ്യാപകമായി വായിക്കുന്നത് നിങ്ങളുടെ ഭാഷയെ ഗണ്യമായി മെച്ചപ്പെടുത്തും പഠിതാക്കൾ ഭൂരിഭാഗം അഫിലിയേറ്റഡ് കോളേജുകളിലെയും വിദ്യാർത്ഥികൾ വിവിധ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലങ്ങളിൽ നിന്നും വരുന്നുഅവരുടെ വൈജ്ഞാനിക കഴിവുകളും അഭിരുചികളും വ്യത്യാസം ഉണ്ട് ഉന്നത വിദ്യാഭ്യാസം വിപുലീകരിച്ചു അതിനുപുറമെ രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹിക കാരണങ്ങളാൽ പ്രവേശനയോഗ്യതകൾ വേണ്ടത്ര കുറച്ചു വിജയിച്ച ആർക്കും എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് അർഹതയുണ്ട് തൽഫലമായി സംഭവിക്കുന്നത് പല കോളേജുകൾക്കും താഴ്ന്ന വൈജ്ഞാനിക കഴിവുകളും അഭിരുചികളും ഉള്ള വിദ്യാർത്ഥികളെ ലഭിക്കുന്നു മോശം വൈജ്ഞാനിക കഴിവുള്ള വിദ്യാർത്ഥികളെ എഞ്ചിനീയറിംഗ് പ്രത്യേകിച്ച് ഗണിതശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു വെല്ലുവിളിയാണ് വിദ്യാർത്ഥികൾ സഹകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഉദാഹരണത്തിന് പ്രവേശന ടെസ്റ്റ് റാങ്കുകളും അവയുടെ ശ്രേണിയും വിദ്യാർത്ഥികളുടെ വൈജ്ഞാനിക കഴിവുകളുടെ ഏകദേശ സൂചനയാണ് ഇത് ഒരു പ്രോക്സിയായി ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വളരെ സങ്കീർണ്ണമായ സർവേകളും പരീക്ഷകളും നടത്തണം കൂടാതെ രക്ഷാകർതൃ സമ്മർദ്ദം കാരണം പല ബ്രാഞ്ചുകളിലും പ്രായോഗികമായി ഇത് എല്ലാ ബ്രാഞ്ചുൾക്കും സാധാരണമാണ് ഇത് വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവല്ല എഞ്ചിനീയറിംഗിനോട് യാതൊരു അഭിരുചിയും ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി വരുന്നു കാരണം അവർ വന്നിരിക്കുന്നത് രക്ഷാകർതൃ സമ്മർദം കാരണമാണ് എഞ്ചിനീയറിംഗിൽ താൽപ്പര്യമില്ലാത്ത ആരെയെങ്കിലും നിങ്ങൾ ഉന്തി തള്ളി വിടുമ്പോൾ അയാൾ അധ്യാപകനും കോളേജിനും മാതാപിതാക്കൾക്കും ഒരു ബാധ്യതയായിത്തീരുന്നു ഈ വിഭാഗങ്ങളിലുടനീളമുള്ള വിദ്യാർത്ഥികളുടെ എണ്ണമാണ് ഒരു സന്ദർഭത്തിന്റെ സവിശേഷത ഈ അവസ്ഥ തന്നെയാണ് എല്ലാ പാരാമീറ്ററുകളിൽ കാണുന്നത് എങ്കിൽ അത് അധ്യാപകന് ഒരു വെല്ലുവിളിയായി മാറുന്നു പഠന അന്തരീക്ഷം ഇതിന് ശാരീരികവും സാമൂഹികവും വൈകാരികവുമായ മാനങ്ങളുണ്ട് ഭൌതിക അന്തരീക്ഷം പഠന ഇടമാണ് ഇന്ത്യയിലെ മിക്ക കോളേജുകളിലും പ്രത്യേകിച്ചും വേനൽക്കാലത്ത് ക്ലാസ് മുറികളിൽ ഫാൻ പ്രവർത്തിക്കുന്നു പശ്ചാത്തല ശബ്ദം വർദ്ധിപ്പിക്കുമ്പോൾ അധ്യാപകനിൽ നിന്ന് ഏതാനും വരികൾ മാത്രം അകലെയുള്ള വിദ്യാർത്ഥികൾക്ക് പോലും അധ്യാപകനെ കേൾക്കാൻ കഴിയില്ല വളരെ ചെറിയ എണ്ണം സ്ഥാപനങ്ങൾക്ക് ക്ലാസ് മുറികൾ എയർകണ്ടീഷൻ ചെയ്യാനുള്ള സൌകര്യമുണ്ട് വിദ്യാർത്ഥികളെ സ്വാധീനിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് അതിന്റെ കൂടെ അവർക്ക് അധ്യാപകനെ ശരിയായി കേൾക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ അഥവാ അധ്യാപകന് വിദ്യാർത്ഥികളുടെ ശ്രദ്ധയാകർഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പഠനത്തിന്റെ അവസാനമാണ് ഞാൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പഠനത്തെക്കുറിച്ച് ചോദിച്ചിട്ടു കാര്യമില്ല ഫർണിച്ചറിന്റെ ചില ക്രമീകരണങ്ങൾ പോലും ചില തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമല്ല വൈ ഫൈയുടെ ലഭ്യതയും ഇൻറർനെറ്റ് ഉപകരണങ്ങൾക്കായി ഉള്ള വൈദ്യുതി കണക്ഷൻസും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ രീതികളിൽ കാര്യമായ സ്വാധീനം ചെലുത്തും പിന്നെ നിങ്ങൾ ബ്ലാക്ക്ബോർഡ് ഉപയോഗിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊജക്ടർ ഉണ്ടെങ്കിൽ പിപിടികൾ അവതരിപ്പിക്കാൻ കഴിയും ക്ലാസിന്റെ സാമൂഹിക മാനം സാമൂഹിക ഇടപെടലുകളിലൂടെ നാമെല്ലാവരും നന്നായി പഠിക്കുന്നുവെന്ന് അറിയാം വിദ്യാർത്ഥികൾ പരസ്പരം ചർച്ച ചെയ്യും ക്ലാസ് റൂമിന് പുറത്ത് അവരിൽ പലരും പരസ്പരം സംവദിക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്നു ഔട്ട്കംസിൽ പറയുന്ന പോലെ ആവശ്യമായ തിങ്ക് പെയർ ഷെയർ ഗ്രൂപ്പ് ചർച്ച ഗ്രൂപ്പ് പ്രോജക്ടുകൾ എന്നിവപോലുള്ള ഇൻസ്ട്രക്ഷൻ രീതികളും പഠന പരിതസ്ഥിതി അനുവദിക്കണം നിങ്ങൾക്കത് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പുകൾ രൂപപ്പെടുത്തണം ഗ്രൂപ്പ് പ്രോജക്റ്റ് പൂർത്തിയാക്കണമെങ്കിൽ ഗ്രൂപ്പ് ചർച്ച ഫലപ്രദമാകണമെങ്കിൽ ശരിയായ തരത്തിലുള്ള ഗ്രൂപ്പ് രൂപീകരണം ഉണ്ടായിരിക്കണം അല്ലാത്തപക്ഷം വീണ്ടും ഇൻസ്ട്രക്ഷൻ രീതി ഉപയോഗശൂന്യമാകും വൈകാരിക പിന്തുണ ഒന്നാമതായി നിങ്ങൾ സൃഷ്ടിക്കുന്ന ഏത് അന്തരീക്ഷവും ഇത് അധ്യാപകനാണ് പ്രധാനമായും സൃഷ്ടിക്കേണ്ടത്അത് വിദ്യാർത്ഥിയെ വൈകാരികമായി പിന്തുണയ്ക്കുന്നുണ്ടോ ഉദാഹരണത്തിന് ഗ്രാമീണ അല്ലെങ്കിൽ പിന്നാക്കം നിൽക്കുന്ന പശ്ചാത്തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അവർ അത്യാവശ്യം കഴിവുള്ളവരാണെങ്കിലും അവർക്കു എല്ലായ്പ്പോഴും ആത്മവിശ്വാസമില്ല വാസ്തവത്തിൽ ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി പ്രോഗ്രാമുകൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ ഇത് എല്ലാവർക്കുമായി ചെയ്യാൻ കഴിയില്ല പിന്തുണ നൽകുന്നതിന് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതാണ് അവർ കൂടുതൽ ഭീരുവും ഉൾവലിയുന്നവരുമായി മാറാതിരിക്കാൻ സഹായിക്കും ഒരാൾക്ക് ചില പ്രവർത്തനങ്ങൾ നൽകണം ചില സംവിധാനങ്ങൾ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തരുത് തെറ്റുകൾ വരുത്തിയാൽ പരിഹസിക്കരുത് ക്ലാസ് മുറിയിൽ അനേകം അഭിരുചിക്കുറവുള്ള വിദ്യാർത്ഥികളുടെ സാന്നിധ്യം എല്ലായ്പ്പോഴും അധ്യാപകന് ഒരു വെല്ലുവിളി ഉയർത്തും കാരണം അവർ ക്ലാസ്സിൽ വരാൻ നിർബന്ധിതരാണ് കാരണം ഹാജർ നിർബന്ധമാണ് അതുകൊണ്ടു അവർ മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുകയും മറ്റ് ആളുകളെ ശല്യപ്പെടുത്തുകയും ചെയ്യും ടയർ 2 കോളേജുകളിൽ ഓരോ അദ്ധ്യാപകനും അഭിസംബോധന ചെയ്യേണ്ടത് ക്ലാസ് റൂമിൽ അഭിരുചിയില്ലാത്ത വിദ്യാർത്ഥികളെ ശ്രദ്ധയാകർഷിക്കുക എന്നതാണ് വികസന പരിമിതികൾ ഒരു ചെറിയ സമയ പരിധിക്കുള്ളിൽ ഒരു കോഴ്സ് രൂപകൽപ്പന ചെയ്യാനും ഓഫർ ചെയ്യാനും ഒരു അധ്യാപകനോട് ആവശ്യപ്പെടാം അത് ഒരു വെല്ലുവിളിയാകും പഠന ഉറവിടങ്ങൾ ഇൻറർനെറ്റിൽ ലഭ്യമാണെങ്കിലും ചില കോഴ്സുകളുമായി ബന്ധപ്പെട്ട് ധനപരിമിതികൾ ഉണ്ടാകാം അഭ്യാസം ഒരു കോഴ്സിന്റെ മൂല്യങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് നിങ്ങൾ പഠിപ്പിച്ച ഇൻസ്ട്രക്ഷൻ സാഹചര്യമോ സന്ദർഭമോ തിരിച്ചറിയുക എന്താണ് മൂല്യങ്ങളും വ്യവസ്ഥകളും എന്ന് നമ്മൾ വിശദീകരിച്ചു അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർശനമായിരിക്കേണ്ടതില്ല പക്ഷേ നിങ്ങൾക്ക് തന്നെ ഇൻസ്ട്രക്ഷൻ സന്ദർഭം തിരിച്ചറിയാൻ കഴിയും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് സ്വാഗതാർഹമാണ് അടുത്ത യൂണിറ്റിൽ പഠനത്തിനുശേഷം തലച്ചോർ എങ്ങനെ പഠിക്കുന്നുവെന്ന് നമ്മൾ നോക്കും കൂടാതെ ഇന്നത്തെ നിലയിൽ ഓരോ അദ്ധ്യാപകനും മസ്തിഷ്കം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചും അതിന് പഠനത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ടെന്നതിനെക്കുറിച്ചും ചില അറിവ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി